ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന കോഴ്സിലെ രണ്ടാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ച്ചറിൽ മെക്കാനോബയോളജി എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള ഒരു വിവരണമാണ് നൽകിയത് അത് നിങ്ങൾക്ക് മേല്പറഞ്ഞ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പ്രചോദനമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മെക്കാനോബയോളജിയുടെ നിർവചനത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഇൻ വൈവോ സാഹചര്യങ്ങളിൽ കോശങ്ങൾ എങ്ങനെ ഫോഴ്സുകളെ കണ്ടെത്തുന്നു അവയോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്നതാണ് മെക്കാനോബയോളജി എന്ന പഠന മേഖല പ്രധാനമായും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബഹീരാകാശസഞ്ചാരികളെ കുറിച്ച് പരാമർശിച്ചിരുന്നു സീറോ ഗ്രാവിറ്റിയിൽ ദീർഘനേരം ചരിക്കുന്നതിനാൽ അവരിൽ ബോൺ ഡിഫെക്ടസിനുള്ള സാധ്യത ഏറെയാണ് ആയതിനാൽ എപ്രകാരമാണ് ഫോഴ്സുകളുടെ കൈമാറ്റം സംഭവിക്കുന്നത് വിവിധ സെല്ലുലാർ പ്രക്രിയകളുമായി ഇവ എങ്ങനെ സമന്വയിക്കുന്നു കൂടാതെ വിവിധ രോഗാവസ്ഥകൾ ഉടലെടുക്കുമ്പോൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങളിലും മറ്റും എപ്രകാരം രൂപഭേദം സംഭവിക്കുന്നു എന്നെല്ലാം അറിയുന്നതിൽ തല്പരമായ പഠനശാഖയാണ് മെക്കാനോബയോളജി ചുരുക്കിപ്പറഞ്ഞാൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എഞ്ചിനീയറിങ് മാത്തമാറ്റിക്സ് എന്നീ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം അംശമുൾകൊള്ളുന്ന വളരെയധികം സമ്പുഷ്ടമായ ഒരു ഇന്റർ ഡിസിപ്ലിനറി ശാഖയാണിത് ആയതിനാൽ ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ള ചോദ്യവുമാകട്ടെ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനമേഖലയിൽ നിന്ന് കൊണ്ടുതന്നെ മെക്കാനോബയോളജി ഉപയുക്തമാക്കി പരിഹരിക്കാൻ സാധിക്കും മനുഷ്യശരീരത്തിൽ നിലനില്ക്കുന്ന വിവിധതരം കോശങ്ങളെ പറ്റി നമുക്ക് ധാരണയുണ്ട് അവ വ്യത്യസ്ത രൂപത്തിലും ആകൃതിയിലും കാണുന്നവയാണ് ഇവയിൽ തന്നെ ഉൾപ്പെടുന്ന RBCs എന്ന കോശങ്ങൾ പക്വമാകുമ്പോഴും അല്ലാത്ത അവസ്ഥയിലും ന്യൂക്ലിയസ് ഇല്ലാത്തവയാണ് ആയതിനാൽ തന്നെ അവയ്ക്ക് ഓക്സിജൻ വിതരണം ചെയ്യുന്നതിനായി ചെറിയ സുഷിരങ്ങളിലൂടെ പോലും അനായാസം കടന്നുപോകാൻ സാധിക്കുന്നു വെറും അഞ്ച് മൈക്രോൺ വ്യാസത്തിനുള്ളിൽ മുഴുവൻ DNA യും ഉൾക്കൊള്ളിക്കേണ്ടതിനാൽ മേല്പറഞ്ഞ ന്യൂക്ലിയസ് കല്ലുപോലെ ദൃഢമായിരിക്കും ഈയൊരു കാരണം കൊണ്ടുതന്നെയാണ് RBC യിൽ ന്യൂക്ലിയസ് ഇല്ലാത്തത് RBC കൾക്ക് തുടർച്ചയായി രക്തപ്രവാഹത്തിലൂടെ ഉയർന്ന സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ചംക്രമണം ചെയ്യേണ്ടതായിട്ടുണ്ട് മേല്പറഞ്ഞ അധികസമ്മർദ്ദങ്ങളെ മറിക്കടുക്കുവാൻ അനുയോജ്യമായ സംവിധാനങ്ങൾ അവയ്ക്ക് അത്യാവശ്യമാണ് ഉദാഹരണത്തിന് മറ്റ് കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നാഡീവ്യൂഹത്തിലെ ന്യൂറോണുകൾ ദൈർഘ്യമേറിയവയാണ് വിവരങ്ങൾ കൈമാറുന്ന അവരുടെ പ്രവർത്തനരീതിക്ക് അനുസൃതമായ സവിശേഷതകളാണ് അവയ്ക്കുള്ളത് കോശങ്ങൾ ചലനാത്മകമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന കൾച്ചർ ഡിഷിന്റെ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അനേകം കോശങ്ങളുടെ സഞ്ചാരപാതകൾ വിവിധ നിറങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം ഇവിടെ നീല നിറത്തിലുള്ള പാത പിന്തുടരുന്ന കോശങ്ങൾ അല്പം ദൂരം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളു എന്നാൽ ഈ കാണുന്ന മഞ്ഞയും ചുവപ്പും നിറങ്ങൾ രേഖപ്പെടുത്തിയ സഞ്ചാരപാതയുള്ള കോശങ്ങളാകട്ടെ ദൂരമേറെ കടന്ന് ചെന്നതായി നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും കൃത്യമായി കാണാവുന്നതാണ് ഇവിടെ കോശങ്ങൾ ഇൻ വിട്രോ അവസ്ഥയിലാണ് അവയ്ക്ക് നീങ്ങുവാനായ് പ്രത്യേക സഞ്ചാരപാതകളോ മറ്റ് തരത്തിലുള്ള ദിശാസൂചനകളോ നൽകിയിട്ടില്ല എന്നിരുന്നാലും കോശങ്ങളുടെ തീവ്ര വൈവിധ്യത്തെയും വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾക്കനുസൃതമായുള്ള അവയുടെ ചലനത്തിനുള്ള പ്രവണതയുമാണ് മേല്പറഞ്ഞ ചിത്രം സൂചിപ്പിക്കുന്നത് ഓരോ കോശങ്ങളും അവയുടെ സാഹചര്യങ്ങൾക്ക് ആധാരമായി വിഭിന്നമായി പെരുമാറുന്നവയാണ് അവയുടെ ഈ സവിശേഷത തികച്ചും ഊന്നൽ നല്കേണ്ട ഒരു വസ്തുതയാണ് ഉദാഹരണത്തിന് നമുക്ക് ഈ കാണുന്ന രണ്ട് കോശങ്ങളുടെ കാര്യം തന്നെയെടുക്കാം ഒന്ന് മൃദുവായ ഒരു പ്രതലത്തിലും മറ്റൊന്ന് അൽപം ദൃഢതയേറിയ പ്രതലത്തിലുമാണ് കയറ്റിവെച്ചിരിക്കുന്നത് മൃദുലം ദൃഢം എന്നീ വിശേഷണങ്ങൾ കൊണ്ട് എന്താണിവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ടിഷ്യുവിനും നിയതമായ മെക്കാനിക്കൽ സവിശേഷതകളുണ്ട് മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥികൾ ദൃഢമായ കോശങ്ങൾക്കും മറിച്ച് നാഡീവ്യൂഹത്തിലെ ന്യൂറോണുകൾ മൃദുകോശങ്ങൾക്കുമുള്ള ഉദാഹരണങ്ങളാണ് തലച്ചോറുപോലുള്ള മൃദുവായ ചട്ടകൂടിനുള്ളിൽ നിൽക്കുമ്പോൾ കോശങ്ങൾ അല്പം ഉരുണ്ട ലെസ്സ് സ്പ്രെഡ് മോർഫോളജിയാണ് കാഴ്ച്ചവെക്കുന്നത് എന്നാൽ ദൃഢമായ ഒരു പ്രതലത്തിലിരിക്കുമ്പോൾ ഇവ കുറച്ച് കൂടി വിസ്താരമുള്ള ആകൃതിയാണ് പ്രദർശിപ്പിക്കുക നിശ്ചലാവസ്ഥയിൽ കഴിയുന്ന കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മേല്പറഞ്ഞ കോശം അതിന് വിപരീതമായി ചലനാത്മകമായ വ്യവസ്ഥിതിയാണ് കൈക്കൊള്ളുന്നത് എന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് മൃദുവും ദൃഢവുമായ പ്രതലങ്ങൾ തമ്മിൽ തരംതിരിക്കുവാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ കോശങ്ങളിൽ അധിഷ്ടിതമാണ് ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ കാണുന്ന കാർഡിയോമയോസൈറ്സ് എന്നയിനം കോശങ്ങളുടെ കാര്യം തന്നെയെടുക്കാം രക്തധമനികൾക്കുമേൽ ഗണ്യമായ തോതിൽ സമ്മർദ്ദം ചെലുത്തലാണ് അവയുടെ ധർമ്മം ആയതിനാൽ തന്നെ സാധാരണ കോശങ്ങളുമായി താദാത്മ്യം പുലർത്തുമ്പോൾ മേല്പറഞ്ഞ കോശങ്ങൾക്ക് ദൃഢമായ ഒരു പ്രതലത്തിൽ അതിവേഗം വ്യാപിക്കാൻ കഴിയും കോശങ്ങൾ എങ്ങനെയാണ് മേല്പറഞ്ഞ സാഹചര്യങ്ങളുടെ ഗുണഗണങ്ങളെ പറ്റി തിരിച്ചറിയുന്നത് അതിനായ് നമുക്ക് ഒരു ഉദാഹരണമെടുക്കാം ഈ കാണുന്ന സിലിക്കൺ പ്രതലത്തിൽ ഫൈബ്രോബ്ലാസ്റ് കോശങ്ങൾ പ്ലേറ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാവുന്നതാണ് മേല്പറഞ്ഞ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായാണ് സംഭവിക്കുന്നത് ഫൈബ്രോബ്ലാസ്റ്റുകൾ പ്രതലവുമായി സംവദിക്കുമ്പോൾ അതിൽ ചുളിവുകൾ വീഴുകയും അവ പതിയെ അപ്രത്യക്ഷമാവുകയും വീണ്ടും പ്രത്യക്ഷപെടുകയും ചെയ്യുന്നു ഇപ്രകാരം കോശങ്ങൾ അവയുടെ പരിതഃസ്ഥിതിയുമായി അവസരോചിതമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതിലൂടെ അവയ്ക്ക് തങ്ങളുടെ സാഹചര്യങ്ങളെ പറ്റി കൃത്യമായ ധാരണ ലഭ്യമാകുന്നു ഇനി ഈ കാണുന്നത് ഒരു ബ്രൈറ്റ് ഫീൽഡ് അഥവാ ഫേസ് കോൺട്രാസ്റ് ഇമേജാണ് ഇതിൽ നിന്നും കോശങ്ങളുടെ ഡൈനാമിക്സിനെ കുറിച്ചും അതിൽ പങ്കുകൊള്ളുന്ന തന്മാത്രകളെ പറ്റിയും നമ്മൾ എങ്ങനെ പഠനം നടത്തുമെന്ന് നോക്കാം ഇതിനായി ഫ്ലൂറസെന്സ് മൈക്രോസ്കോപ്പി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ നമുക്ക് തല്പരമായ പ്രോട്ടീനുകളെ ഫ്ലൂറോഫോർ ഉപയോഗിച്ച് ടാഗ് ചെയ്യുകയും ശേഷം ഒരു ഇൻവെർട്ടഡ് മൈക്രോസ്കോപ്പ് ഉപയോഗപ്പെടുത്തി വീക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു ലളിതമായ വീഡിയോ കണ്ടു നോക്കാം RFP Lifeact കൊണ്ട് ട്രാൻസ്ഫെക്ട് ചെയ്ത ഒരു കോശത്തിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് Lifeact എന്നത് ആക്റ്റിൻ ഡൈനാമിക്സിനെ പ്രോബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇവ ആക്റ്റിനിൽ ബന്ധിച്ചാണ് പ്രവർത്തിക്കുന്നത് നമുക്കിനി ഈ വീഡിയോ ഒന്ന് കൂടി കണ്ടുനോക്കാം കോശത്തിന്റെ ഈ കാണുന്ന സോണിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഗണ്യമായ തോതിൽ തീവ്രത അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മേല്പറഞ്ഞ തീവ്രത മൂലം കോശത്തിൽ ക്ഷയം സംഭവിക്കുകയും ക്രമേണ അത് നിലംപതിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷെ കോശങ്ങൾ ഇവിടെ ഒരു തരത്തിലുള്ള കോൺട്രാക്ടായിൽ ഫോഴ്സ് ചെലുത്തുന്നുണ്ടായിരിക്കും എന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഇനി ഈ വീഡിയോ നമുക്ക് ഒന്ന് കൂടി ആവർത്തിച്ച് കാണാം ഇവിടെ Lifeact ന്റെ നിരക്കിൽ കാര്യമായ വർദ്ധനവുണ്ട് അതിനർത്ഥം ഈ കാണുന്ന കോശത്തിനകത്ത് ഗണ്യമായ തോതിൽ പോളിമേറൈസസേഷനും തുടർന്നല്പം റിട്രാക്ഷനും സംഭവിക്കുന്നു എന്നതാണ് അതിന്റെ പരിണിത ഫലമാണ് മേല്പറഞ്ഞ കോശത്തിൽ അനുഭവപ്പെടുന്ന ഈ ക്ഷയം കോശങ്ങളെ മൊത്തമായി കണക്കാക്കുകയാണെങ്കിൽ അവയുടെ സെന്ററോയ്ഡിന് കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ടുമാത്രം കോശം നിശ്ചലാവസ്ഥയിൽ നില്ക്കണമെന്നില്ല അവ അപ്പോഴും ഡൈനമിക്കായി തന്നെ തുടരും വീഡിയോയിൽ ഉടനീളം ഏതാനും ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നത് ശേഷിക്കുന്ന കോശത്തിന്റെ പ്രധാനഭാഗങ്ങളെല്ലാം സാധാരണ നിലയിൽ തന്നെയാണ് തുടരുന്നത് ഒരു മെക്കാനിക്കൽ വീക്ഷണകോണിൽ നിന്നും നോക്കുകയാണെങ്കിൽ കോശങ്ങളെ ഞാൻ ഒരു ടെന്റുമായി ഉപമിക്കാൻ ആഗ്രഹിക്കുന്നു നിലത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഈ ടെന്റിന്റെ കാര്യം തന്നെ എടുക്കാം കോശങ്ങൾക്ക് സ്ഥിരതയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായ നിബന്ധനകൾ എന്തൊക്കെയാണ് നമുക്ക് ഇതൊന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം അകവും പുറവും വേർതിരിക്കാനായി തീർച്ചയായും ഒരു ടെന്റ് കവർ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു കനോപ്പി വേണം രണ്ടാമതായി ടെന്റിനെ ബലിഷ്ഠമായി തറയിൽ ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത് അതിശക്തമായ കാറ്റുണ്ടായാൽ ടെന്റ് മറിഞ്ഞു വീഴാതിരിക്കാൻ ഇത് സഹായിക്കും നിരപ്പായ തറയിൽ വേണം ഇത് ഉറപ്പിക്കാൻ മറിച്ച് വെള്ളത്തിലോ ടെന്റിനെ താങ്ങാൻ ശേഷിയില്ലാത്ത ഇടങ്ങളിലോ ഇത് ഉറപ്പിക്കരുത് ഇനി ടെന്റിന് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളെ ഒരു കോശത്തിന്റെ പ്ലാസ്മ മെംബ്രേയ്നുമായി നമുക്ക് താരതമ്യം ചെയ്തുനോക്കാം കോശങ്ങളുടെ അകവും പുറവും വേർതിരിക്കുന്നതിനുള്ള സംവിധാനമാണ് മേല്പറഞ്ഞ പ്ലാസ്മ മെംബ്രേയ്ൻ ഇതൊരു സെലക്ടീവ്ലി സെമി പെർമിയബിൾ ബാരിയറാണ് കോശങ്ങൾക്കകത്ത് നിന്ന് പുറത്തേക്കും നേരെ തിരിച്ചും തെരഞ്ഞെടുക്കപ്പെട്ട സൊല്യൂട്ടുകളെ കടത്തിവിടാൻ കെല്പുള്ള പാളിയാണിത് ഇവയ്ക്കിടയിൽ ലിപ്പിഡിന്റെ ഒരു ബൈലെയറും ഏതാനും ചില പ്രോട്ടീനുകളേയും നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീനുകളാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഈ കാണുന്ന പച്ച നിറത്തിലുള്ള പ്രോട്ടീൻ ലിപ്പിഡ് ബൈലെയറിൽ ആകെ വ്യാപിച്ചാണ് കിടക്കുന്നത് ഇതിനെ ട്രാൻസ് മെംബ്രേയ്ൻ പ്രോട്ടീനുകൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ കാണുന്നതാണ് കോശത്തിന്റെ ഉൾവശം ഇത് പുറം വശമാണ് കോശത്തിന്റെ ആന്തരികപാളിയിലോ അല്ലെങ്കിൽ പുറം പാളിയിലോ നമുക്ക് പ്രോട്ടീനുകളെ കാണാവുന്നതാണ് ട്രാൻസ് മെംബ്രേയ്ൻ പ്രോട്ടീനുകൾക്ക് കോശത്തിന്റെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ സ്വതന്ത്രമായി അനുവർത്തിക്കുന്ന മറ്റ് ബാഹ്യകോശങ്ങളോ പ്രോട്ടീനുകളോ തന്മാത്രകളോ ആയി സംവദിക്കാനുള്ള ശേഷിയുണ്ട് ഒരു കോശത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രധാന ആവശ്യകത എന്നത് തീർച്ചയായും അതിന്റെ സൈറ്റോസ്കെലിറ്റാനാണ് മേല്പറഞ്ഞ ചട്ടക്കൂടാണ് കോശങ്ങൾക്ക് നിയതമായ രൂപഘടന പ്രതിനിധാനം ചെയ്യുന്നത് സൈറ്റോസ്കെലിറ്റൻ എന്ന ആവരണം കോശത്തിന് നിയതമായ ആകൃതിയും അവശ്യമായ മോട്ടിലിറ്റിയും പ്രധാനം ചെയ്യുന്നു ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയയിൽ മാക്രോഫേജിന്റെയോ ന്യൂട്രോഫിലിന്റെയോ മുന്നോട്ടുള്ള ചലനത്തിനെ സ്വാധീനിക്കുന്ന ആക്ടിനിൽ അധിഷ്ഠിതമായ പോളിമറൈസേഷൻ ഫോഴ്സെന്നത് മേല്പറഞ്ഞ ആവരണത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത് മെംബ്രേയ്നിന് കൂടുതൽ കരുത്തും സമഗ്രതയും നൽകുന്നു ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായാൽ കോശങ്ങൾക്ക് മേല്പറഞ്ഞ ആവരണത്തിന്റെ സഹായത്താൽ അവയെ പ്രതിരോധിക്കാൻ കഴിയും ഈ കാണുന്നത് ഭ്രൂണാവസ്ഥയിലുള്ള ഒരു എലിയുടെ എംബ്രിയോണിക് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളാണ് ഇവയ്ക്കുള്ളിലെ ഫിലമെന്റസ് അഥവാ F ആക്റ്റിനെ ഫെലോയ്ഡിൻ എന്ന സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ പച്ച നിറത്തിൽ കാണുന്ന വരകൾ മേല്പറഞ്ഞ ഫിലമെന്റസ് ആക്റ്റിനെ സൂചിപ്പിക്കുന്നവയാണ് ഈ വരകളെല്ലാം ഇപ്പോൾ നേരെയായിട്ടാണ് കാണുന്നത് അതിനർത്ഥം F ആക്റ്റിന്റെ ഫിലമെന്റുകൾ ടെൻഷനിലാണെന്നാണ് ഈ കാണുന്ന ചിത്രത്തിൽ ഫിലമെന്റുകളെല്ലാം നിശ്ചിത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇത് തുടർച്ചയായി ഒത്തുചേരുകയും വേർപെടുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു ഡൈനാമിക് ആയ പ്രവർത്തനത്തിന്റെ പ്രഭാവമുണ്ടാകുന്നുണ്ട് മൈക്രോ ട്യൂബ്യുളുകളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റോസ്കെലിറ്റൽ പ്രോട്ടീനുകളിൽ ഒന്ന് മാത്രമാണ് ആക്റ്റിൻ എന്നും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഈ കാണുന്ന ചിത്രത്തിൽ ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് വ്യാപിച്ച് കോശത്തിന്റെ പെരിഫെറിയിലേക്ക് നീളുന്ന തരത്തിലുള്ള മൈക്രോ ട്യൂബ്യുളുകൾ കാണാമല്ലോ ഇവ കോശങ്ങൾ തമ്മിലുള ഇൻട്രാ സെല്ലുലാർ ട്രാൻസ്പോർട്ടിലും അതുപോലെ തന്നെ സെൽ ഡിവിഷനിലും ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന പ്രോട്ടീനുകളാണ് മേല്പറഞ്ഞ പ്രോട്ടീനുകളുടെ ചലനാത്മകമായ പ്രവർത്തനത്തിലൂന്നിയാണ് പല പ്രധാനപ്പെട്ട ആന്റി ക്യാൻസർ മരുന്നുകളും ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നത് ആയതിനാൽ സൈറ്റോസ്കെലിറ്റൻ എന്ന ഘടകം കോശങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പു വരുത്തുന്ന ഒരു സംവിധാനമാണ് എന്നതാണ് രത്നച്ചുരുക്കം ഇനി കോശങ്ങൾക്ക് ആവശ്യം ഒരു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സാണ് കോശങ്ങൾക്ക് ഘടനാപരമായ പിന്തുണയേകുന്ന ഒരുതരം തട്ടാണിത് ഇതിൽ പറ്റി നിന്നാണ് അവ വളരുന്നത് കോശങ്ങളുടെ ജലാംശം നഷ്ടപ്പെടാതെ സംഭരിക്കാനും അവയുടെ എഡ്ഹെഷനെ ഗണ്യമായി സ്വാധീനിക്കുവാനും കഴിയുന്ന ഒന്നാണ് മേല്പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഇത് ഭ്രൂണാവസ്ഥയിലുള്ള ഒരു എലിയുടെ എംബ്രിയോണിക് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളാണ് മേല്പറഞ്ഞ കോശങ്ങൾ സ്രവിക്കുന്ന ഫൈബ്രില്ലാർ പ്രകൃതമുള്ള എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിന്റെ ഉദാഹരണമാണിത് കോശങ്ങളിൽ നിന്നും ഉല്പാദിപ്പിക്കപ്പെടുന്ന ഏതു തരം പ്രോട്ടീനുകളുമായും ബന്ധപ്പെടുന്ന എസ്റ്റർ എന്ന സ്റ്റെയിനാണ് നാം ഇവിടെ ഉപയോഗിക്കുന്നത് മേല്പറഞ്ഞ മെട്രിക്സിനകത്ത് വേറെയും ധാരാളം എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീനുകൾ കാണാൻ സാധിക്കും എന്നിരുന്നാലും ഈ മെട്രിക്സ് ഒരു സംയോജിതമായ നെറ്റ്വർക്ക് രൂപീകരിക്കുന്നതിലും ടിഷ്യുകളുടെ പൊതുവായ ഘടനയെ പിന്താങ്ങുന്നതിലും കാര്യമായ പങ്കുവഹിക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് ഫോക്കൽ എഡ്ഹെഷൻസ് അഥവാ ഡൈനാമിക് വെൽഡുകളെ പറ്റി ചർച്ച ചെയ്യാം F ആക്ടിനെ ലക്ഷ്യം വെച്ച് സ്റ്റെയിൻ ചെയ്ത ഏതാനും കോശങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപെടുത്തിയിരുന്നു ഓരോ കോശങ്ങൾക്ക് താഴെയും നിങ്ങൾക്ക് ഈ ചുവന്ന കുത്തുകൾ കാണാൻ സാധിക്കും ഈ കാണുന്ന കുത്തിട്ട ഭാഗങ്ങൾ മുഖേനയാണ് ഇവ തങ്ങൾക്ക് തൊട്ട് താഴെയുള്ള പ്രതലത്തിലോ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലോ നിലയുറപ്പിക്കുന്നത് മേല്പറഞ്ഞ എഡ്ഹെഷൻ പോയ്ന്റ്സ് ഡൈനാമിക് ആകുന്ന അവസ്ഥയിൽ മാത്രമേ കോശങ്ങൾക്ക് ചലനം സാധ്യമാകൂ എന്നതുകൊണ്ട് തന്നെ മേല്പറഞ്ഞ ചലനം സാധ്യമാക്കുവാൻ ഇവ നിരന്തരം ചലനാത്മകമായ വ്യവസ്ഥയിലാണ് തുടരുന്നത് പ്രാരംഭ ഘട്ടത്തിലുള്ള ആമുഖത്തിന് ശേഷം വോക്കലൈസേഷന്റെയും മറ്റും ആക്സസറി മെട്രിക്സ് പ്രോപ്പർടീസിനെ കുറിച്ചും നമുക്ക് വിശദമായി തന്നെ പഠനം നടത്താം എനിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ഉന്നയിക്കണമെന്നുണ്ടെന്ന് കരുതുക ഭൂമിയിലുള്ള സർവജീവജാലങ്ങളിലും സ്പർശനമറിയുന്നതിനും കാഴ്ചയ്ക്കും ശ്വസനത്തിനും മറ്റുമായി വിവിധതരത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ഇൻ വൈവോയായി കോശങ്ങൾ എപ്രകാരമാണ് അവയുടെ ചുറ്റുപാടുകൾക്കനുസൃതമായി പെരുമാറുന്നത് എന്ന ചോദ്യം നാം ലെക്ച്ചറിന്റെ ആരംഭത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു മെക്കാനോ ട്രാൻസ്ഡക്ഷൻ എന്ന പ്രക്രിയയിലൂടെ മെക്കാനിക്കലായ ഉത്തേജനങ്ങളെ ബയോകെമിക്കൽ സിഗ്നലുകളാക്കുന്ന നടപടി പിന്തുടർന്നാണ് മേല്പറഞ്ഞ സംഗതി സാധ്യമാകുന്നത് ഇതിൽ മൂന്ന് വിഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് സെൻസിങ്ങിനുള്ള ഭാഗമാണ് മറ്റൊന്ന് ട്രാൻസ്മിഷന് വേണ്ടിയാണ് മൂന്നാമത്തേതാകട്ടെ ടാർഗറ്റ് ആക്റ്റിവേഷൻ ചെയ്യാനുള്ള ഭാഗമാണ് ഈ കാണുന്ന ചിത്രത്തിലുള്ളത് പ്രകാരം കോശങ്ങൾ മേല്പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് കോശങ്ങൾക്കകത്ത് കാണുന്ന ഈ പ്രോട്ടീനുകൾ സംഘടിച്ചിരിക്കുന്നതും മെട്രിക്സുമായി നേരിട്ട് ബന്ധപെടുന്നതും സിലിക്കോൺ പ്രതലത്തിൽ ഫൈബ്രോബ്ലാസ്റ് കോശങ്ങൾ ചെലുത്തുന്ന കോൺട്രാക്ടായിൽ ഫോഴ്സിന് സമാനമായ രീതിയിലാണ് മറ്റു കോശങ്ങളും ഫോഴ്സ് ചെലുത്തുന്നത് ഇപ്രകാരം ന്യൂക്ലീയസിൽ നിന്നും പുറപ്പെടുന്ന സിഗ്നലുകൾ കോശത്തിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ മുതലായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു മേല്പറഞ്ഞ മെക്കാനിക്കലായ മാർഗങ്ങളിലൂടെ മാത്രമല്ല മറിച്ച് തന്മാത്രകൾ പാസീവ് ഡിഫ്യൂഷനിലൂടെയും കോശങ്ങളുടെ പുറമെ സ്ഥിതിചെയ്യുന്ന മെംബ്രെയ്ൻ പ്രോട്ടീനുകളുമായി ബന്ധിച്ച് കോശങ്ങൾക്കത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ന്യൂക്ലിയസിൽ എത്തിച്ചേരുന്ന ഇവ സെൽ സിഗ്നലിങ് പാത്ത് വെയ്സിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നു മെക്കാനിക്കൽ ഫോഴ്സിന്റെ പ്രൊപഗേഷൻ ടൈം സ്കെയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൈക്രോസെക്കന്റുകളുടെ ക്രമത്തിലാണ് ഇവിടെ വ്യതിയാനം സംഭവിക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കോശത്തിന് പുറമെ നിന്നും അകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഫിസിക്കൽ ലിങ്കേജ് ഉണ്ടെങ്കിൽ മേല്പറഞ്ഞത് പോലെ അനായാസം സിഗ്നലുകൾക്ക് ന്യൂക്ലിയസിൽ എത്തിച്ചേരാൻ സാധിക്കും ഒരു പക്ഷെ ഇതിനായി ഏതാണ്ട് അഞ്ച് സെക്കൻഡ് സമയം മാത്രമേ ചിലപ്പോൾ വേണ്ടിവരുകയുള്ളു എന്നാൽ ഒരു കെമിക്കൽ സിഗ്നൽ പ്രൊപഗേഷന്റെ കാര്യത്തിൽ സ്ഥിതി മറ്റൊന്നാണ് ഇവിടെ കോശവുമായി ബന്ധിക്കപ്പെട്ട തന്മാത്രകൾ കോശങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുകയും ആന്തരികതലത്തിൽ വ്യാപിച്ച് ഇവ ന്യൂക്ലിയസിലേക്ക് കടന്നു ചെല്ലുവാൻ തന്നെ അല്പം സമയം അധികമെടുക്കുന്നുണ്ട് മെക്കാനിക്കൽ സിഗ്നൽ പ്രൊപഗേഷന്റെ മാഗ്നിട്യൂഡ് എന്നത് കെമിക്കൽ സിഗ്നൽ പ്രൊപഗേഷനേക്കാളും മൂന്നിരട്ടി മുന്തിയതാണ് എന്നതാണ് വസ്തുത മേല്പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ കോശങ്ങളുടെ അകവും പുറവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫിസിക്കൽ ലിങ്കേജ് ഉണ്ടായിരിക്കണം ഇവിടെ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആക്റ്റിൻ നെറ്റ്വർക്കുകൾ ഉണ്ട് ഇതിലെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റുകളിലൂടെ സിഗ്നലുകൾ ഇന്റെഗ്രിൻ എന്ന ട്രാൻസ് മെംബ്രേയ്ൻ പ്രോട്ടീനിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെടുന്നുണ്ട് ഡയസ്ട്രോഗ്ലൈകെൻ കോംപ്ലെക്സ് പോലുള്ള സമാനമായ പ്രോട്ടീനുകളും ന്യൂക്ലിയസിലേക്ക് സിഗ്നലുകൾ കടത്തിവിടുന്നുണ്ട് മേല്പറഞ്ഞ സിസ്റ്റം വളരെയധികം ചലനാത്മകമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒന്നാണ് ഇനി നമുക്ക് ഓസ്മോട്ടിക് സ്വെല്ലിങ് പോലുള്ള അവസ്ഥകളുണ്ടാകുമ്പോൾ കോശങ്ങൾ ഇത്തരം ഫോഴ്സുകളോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്ന് നമുക്ക് വിശദമായ നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മയോ ട്യൂബിന്റെ ഒരു മസിൽ സെല്ലാണ് ഇത് യഥാർത്ഥത്തിൽ ജലാംശത്തിന് വിധേയമായ ഒരു ഇൻ വിട്രോ മയോ ട്യൂബാണ് ഇതിലെ ജലാംശത്തിന്റെ തോത് ഇരുപത് ശതമാനം മാത്രമാണ് എങ്കിൽ ഇവയുടെ മെംബ്രേയ്നിന്റെ ഘടനയ്ക്ക് പ്രത്യക്ഷമായ രൂപാന്തരങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഓസ്മോറ്റിക് സ്ട്രെസ്സിന്റെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവുണ്ടായാൽ ഈ കാണുന്നത് പോലെ ഏതാനും ചില ബ്ലെബ്സ് കോശങ്ങളുടെ കോണുകളിൽ പ്രത്യക്ഷപ്പെടുന്നു ജലാംശത്തിന്റെ അളവ് നൂറ് ശതമാനമെത്തുമ്പോൾ രൂപപ്പെടുന്ന ഓസ്മോറ്റിക് സ്ട്രെസ്സിനെ പ്രതിരോധിക്കാൻ കോശങ്ങൾക്ക് കഴിയാതെ വരുകയും അവ ക്രമേണ ചിന്നിച്ചിതറുകയും ചെയ്യുന്നു ഓസ്മോട്ടിക് ഷോക്ക് കോശങ്ങളുടെ ഫീനോടൈപ്പിൽ എപ്രകാരമാണ് രൂപാന്തരമുണ്ടാക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇവ കോശത്തിനകത്ത് അൻപത് ശതമാനം ജലാംശം മാത്രമാണുള്ളതെങ്കിൽ മേല്പറഞ്ഞ ബ്ളെബുകൾക്ക് കോശങ്ങളുടെ ഉപരിതലത്തിൽ ചലിക്കാനായി സാധിക്കും അവയുടെ ഘടനയ്ക്കും ചില സവിഷശേഷതകളുണ്ട് പതിയെ ഉപരിതലത്തിലേക്ക് വരുന്ന ഇവ ക്രമേണ വലുതാവുകയും ഒടുവിൽ കോശങ്ങൾക്കകത്തേക്ക് ഉൾവലിയുകയും ചെയ്യുന്നു മേല്പറഞ്ഞ ഉദാഹരണത്തിലുള്ള ബ്ളെബുകൾ ഏതാണ്ട് ഏഴ് തൊട്ട് പത്ത് മൈക്രോൺ മാത്രം വിസ്താരമുള്ളവയാണ് മാത്രമല്ല മൂന്ന് മുതൽ അഞ്ച് മിനിട്ടുവരെ മാത്രമേ ഇവയ്ക്ക് ആയുസ്സുള്ളൂ അനുനിമിഷം ഒരു മൈക്രോൺ ദൂരം എന്ന കണക്കിലാണ് ഇവയുടെ പ്രവേഗം വലുപ്പത്തിന്റെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവുണ്ടാകുകയും പിന്നീട് ചുരുങ്ങുകയും ചെയ്യുന്നതിലൂടെ തങ്ങൾ സ്വമേധയ നിയന്ത്രിതമായി പ്രവർത്തിക്കുന്നവയാണ് എന്നതാണ് ഇവ നൽകുന്ന സൂചന മേല്പറഞ്ഞ സ്വമേധയാലുള്ള നിയന്ത്രണമെന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് അതായത് മെംബ്രേയ്നിലുണ്ടാകുന്ന ടെൻഷന്റെ നിരക്ക് കൃത്യമായി ഗണിക്കാൻ സഹായിക്കുന്ന ചില സെൻസറുകൾ ഒരു പക്ഷെ കോശങ്ങളുടെ ഉപരിതലത്തിൽ തന്നെ ഉണ്ടായിരിക്കണം ടെൻഷന്റെ നിരക്കിൽ വർദ്ധനവുണ്ടാകുന്നതിന് അനുസൃതമായി പ്രതലത്തിൽ അടിഞ്ഞ് കൂടാൻ ഇവയ്ക്ക് സാധിക്കുമായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രോട്ടീനാണ് ഗാമ സാർകോഗ്ലൈക്കൻ ഇവ ബ്ലെബുകൾ ഉള്ളിടത് ധാരാളമായി അടിഞ്ഞ് കൂടി കിടക്കുന്നതായി കാണാൻ കഴിയും ഗാമ സാർകോഗ്ലൈക്കൻ എന്നറിയപ്പെടുന്ന മേല്പറഞ്ഞ പ്രോട്ടീൻ കോശങ്ങളിൽ പ്രത്യേകമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ചലനാത്മകത നമുക്ക് എളുപ്പത്തിൽ ട്രാക്കുചെയ്യാനാകും മെംബ്രേയ്ൻ ടെൻഷന്റെ തീവ്രതയ്ക്കനുസരിച്ച് മേല്പറഞ്ഞ പ്രോട്ടീൻ ബ്ലെബുകളുടെ സ്ഥാനങ്ങളിൽ ചെന്ന് അടിയുന്നു ആയതിനാൽ ഇവയുടെ ശരാശരി തീവ്രത ഫ്ലൂറസെന്സ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കണക്കാക്കാനാകും കോശത്തിലുള്ള ജലാംശത്തിന്റെ സാന്ദ്രത ആധാരമാക്കിയാണ് ഫ്ലൂറസെൻസിന്റെ പ്രവർത്തനം ഇതൊരു മെക്കാനോ സെൻസർ കൂടിയാണ് വർദ്ധിച്ച അളവിൽ കോശങ്ങളിൽ ജലാംശം ഉടലെടുക്കുമ്പോൾ മേല്പറഞ്ഞ പ്രോട്ടീനിൽ നിന്നും വ്യത്യസ്തമായി ഡയസ്ട്രോഫിൻ എന്നൊരു പ്രോട്ടീൻ കൂടി ഇവിടെ പ്രവർത്തനത്തിലുണ്ട് കോശങ്ങളിൽ നിങ്ങൾ ചെലുത്തുന്ന ഫോഴ്സുകളോട് വിഭിന്നമായ തരത്തിൽ പ്രതികരിക്കുന്ന അനേകം പ്രോട്ടീനുകൾ നിലവിലുണ്ട് ഇത് അത്തരമൊരു പ്രോട്ടീനിന്റെ ഉദാഹരണമാണ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീൻ കൊണ്ട് പൊതിഞ്ഞ ഒരു ബീഡിന്റെ ഉദാഹരണമാണിത് ഇവിടെ ബീഡിനെ കോശത്തിന്റെ ഉപരിതലവുമായി ഒരു ഫിസിക്കൽ ലിങ്കേജ് മുഖേന ബന്ധിച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഈ കാണുന്ന കോശത്തിന് മുകളിൽ സ്ഥാനം പിടിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് മേല്പറഞ്ഞ ബീഡിനുമേൽ ഗണ്യമായ തോതിൽ ഒരു ഫോഴ്സ് ചെലുത്തുമ്പോൾ SRC എന്നൊരു പ്രോട്ടീൻ കോശങ്ങൾക്കകത്ത് ലോക്കലൈസ് ചെയ്യപെടുന്നതായി നിങ്ങൾക്ക് വ്യക്തമാകും ഫോഴ്സ് ചെലുത്തിയ ഇടത്തിൽ നിന്നും അല്പം ദൂരെയാണിത് സംഭവിക്കുന്നത് മേല്പറഞ്ഞ ആക്റ്റിവേഷൻ എന്ന പ്രക്രിയ ദ്രുതഗതിയിലാണ് സംഭവിക്കുന്നത് നമ്മൾ ഫോഴ്സ് ചെലുത്തുന്ന എക്സോഷൻ പോയിന്റിൽ തന്നെ ഇത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല അല്പം നീങ്ങി മറ്റൊരിടത്തും ഇത് ഉത്ഭവിക്കാം കോശങ്ങൾക്കകത്ത് വിഭിന്നങ്ങളായ മെക്കാനോ റെസ്പോൺസീവ് എലെമെന്റുകൾ ഉണ്ടെന്നും അവയ്ക്കെല്ലാം പ്രവർത്തനത്തിലേർപ്പെടാൻ നിയതമായ സമയക്രമങ്ങൾ ഉണ്ടെന്നും ഇതിനാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഫോക്കൽ എഡ്ഹെഷൻ പോഡോസോമുകൾ പിന്നെ ഇൻവേഡോപോഡിയ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത സ്ട്രക്ചേഴ്സിനെ പറ്റി ഞാനിവിടെ കുറിച്ചിട്ടിട്ടുണ്ട് ഇവയെല്ലാം എല്ലാ കോശങ്ങളിലും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ ഫോക്കൽ എഡ്ഹെഷൻ ഒട്ടുമിക്ക അനുബന്ധ കോശങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് കോശങ്ങളുടെ ശരാശരി ചലനത്തെ ആശ്രയിച്ച് അവയുടെ ചലനാത്മകതയിലും വ്യതിയാനം സംഭവിക്കാം അനുബന്ധ കോശങ്ങളെ പ്രതലവുമായി ബന്ധിപ്പിക്കലാണ് ഇവയുടെ പ്രധാന ധർമ്മം മാക്രോഫേജ് പോലെയുള്ള കോശങ്ങളിലാണ് സാധാരണയായി ദ്രുതഗതിയിൽ ചലിക്കുന്ന പൊഡോസോമുകൾ കാണുന്നത് വിട്രിക്സിനെ ഡീഗ്രേഡ് ചെയ്യലാണ് ഇവയുടെ പരമോന്നതമായ ഉദ്ദേശം ആയതിനാൽ ഫോക്കൽ എഡ്ഹെഷനോടൊപ്പം പോഡോസോമുകൾ കൂടി ചേരുമ്പോൾ നമുക്ക് കോശങ്ങളുടെ സെലക്ടീവ് ഡീഗ്രഡേഷനോ അല്ലെങ്കിൽ മെട്രിക്സിന്റെ റീ മോഡലിങോ സാധ്യമാകുന്നു ഇതിലൂടെ ഇവ ഇൻവേഡോപോഡിയയ്ക്ക് സമാനമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇൻ വിട്രോ പരിധിയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനരീതിക്ക് അനുയോജ്യമായ പ്രതികരണങ്ങളാണ് മേൽ ചൂണ്ടിക്കാട്ടിയ വിവിധയിനം സ്ട്രക്ച്ചറുകളെല്ലാം മുന്നോട്ട് വെയ്ക്കുന്നത് ഞാൻ ഈ കാണുന്ന പ്രതലത്തിൽ ഒരു കോശത്തിനെ വരയ്ക്കുകയാണ് ഇതാണ് അതിന്റെ ന്യൂക്ലിയസ് എഡ്ഹെഷൻസിനെ ഞാൻ ഇപ്രകാരമാണ് രേഖപെടുത്തുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിനെ ചുറ്റിപറ്റി വ്യാപിച്ചു കിടക്കുന്ന ആക്റ്റിൻ നെറ്റ്വർക്കാണ് ഈ കാണുന്ന ഭാഗത്ത് ഞാൻ ഒരു ഫോഴ്സ് ചെലുത്തിയാൽ മേല്പറഞ്ഞ സൈറ്റോസ്കെലിറ്റൽ ഘടകങ്ങൾ ഈ ഫോഴ്സിനെ പുറത്ത് നിന്നും കോശത്തിന് ഉള്ളിലുള്ള വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്ക് സംപ്രേക്ഷണം ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ചത് പോലെ വൈവിധ്യ പൂർണമായ പ്രോട്ടീനുകളുടെ ഒരു സെലക്ടീവ് എൻറിച്ച്മെന്റ് ഇവിടെ സാധ്യമാകുന്നുണ്ട് അവ ഫോഴ്സ് ചെലുത്തിയ സ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നമായ ഇടങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതായി നമുക്ക് കാണാനാകും ഫോക്കൽ എഡ്ഹെഷനിൽ നിന്നും വിപരീതമായി മെട്രിക്സിലേക്ക് പടർന്നു കയറി കാണുന്ന ഇൻവേഡോപോഡിയയുടെ കാര്യം തന്നെ എടുക്കാം ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപായി നമുക്ക് മെട്രിക്സ് ഒന്ന് വരച്ച് പൂർത്തിയാക്കാം മെട്രിക്സിലേക്ക് പടർന്നു കയറിയ രീതിയിലാണ് ഇൻവേഡോപോഡിയയുടെ രൂപഘടന ഇത് മെട്രിക്സിന്റെ പുനർനിർമ്മാണത്തിന് സഹായകമാകുന്ന ഒരു സ്ട്രക്ച്ചറാണ് പതിയെ പടർന്ന് വലുതാവുകയും പിന്നീട് ചുരുങ്ങി ഒന്നടങ്കം അപ്രത്യക്ഷമാകുന്ന ഒരു സവിശേഷതയാണ് മേല്പറഞ്ഞ ഇൻവേഡോപോഡിയ്ക്ക് ഉള്ളത് കോശങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ തോതനുസരിച്ച് ഇവയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട മനഃസാന്നിധ്യത്തിന് നന്ദി വരും ലെക്ച്ചറുകളിൽ നമ്മൾ ഈ വിഷയത്തെ പറ്റി കൂടുതൽ വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നതായിരിക്കും